എലെക്ട്രോമാഗ്നെറ്റിക് വേവ്സ് റിഫ്ലെക്ടറിംഗ് ഫ്രം എ ഡീലക്ട്രിക് സർഫേസ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഒരു സ്ട്രിംഗിൽ വരുന്ന ഒരു മെക്കാനിക്കൽ തരംഗം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ മറ്റ് മാധ്യമങ്ങൾ മറ്റൊരു സ്ട്രിംഗായിരിക്കുമ്പോൾ ഒരു അതിർത്തിയുണ്ടെങ്കിൽ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ കണ്ടു സമാനമായ രീതിയിൽ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരു ഉപരിതലത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങൾ വീഴുമ്പോൾ പ്രതിഫലനമുണ്ടാകാൻ പോകുന്നു തുടക്കത്തിൽ തന്നെ ഒരു റിഫ്ലെക്ടഡ് തരംഗമുണ്ടെന്നും ഒരു ഇൻസിഡന്റ് തരംഗമുണ്ടെന്നും ട്രാൻസ്മിറ്റഡ് തരംഗമുണ്ടെന്നും ഞങ്ങൾ ഊഹിക്കാൻ പോകുന്നു നമുക്ക് ഒരു വശത്ത് ഒരു മാധ്യമത്തിന് പെർമിറ്റിവിറ്റി എപ്സിലോൺ 1 ഉണ്ട് മറുവശത്ത് പെർമിറ്റിവിറ്റി എപ്സിലോൺ 2 ഉണ്ട് നമുക്ക് അവയെ നോൺ മാഗ്നറ്റിക് ആയി എടുക്കാം അതിനാൽ ഇടത് വശത്ത് നിന്ന് തരംഗം വരുമ്പോൾ പ്രവേശനക്ഷമത അതേ mu 0 ആയിരിക്കും നമുക്ക് അതിന്റെ e ഫീൽഡ് കാണിക്കാൻ ചുവന്ന അടയാളം എടുക്കാം കാരണം e ക്രോസ് b എനിക്ക് പ്രചാരണത്തിന്റെ ദിശ നൽകണം പച്ച നിറത്തിൽ b ഫീൽഡ് ഈ രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു അതിനാൽ ഇതാണ് b ഫീൽഡ് e ഫീൽഡ് അതിൽ കാണിക്കുന്നു മറുവശത്ത് അത് പ്രതിഫലിക്കുമ്പോൾ ഇൻകമിംഗ് തരംഗത്തിന്റെ അതേ ദിശയിലേക്കാണ് ഞാൻ e എടുക്കുന്നതെന്ന് കരുതുക അപ്പോൾ e ക്രോസ് b എനിക്ക് പ്രചാരണത്തിന്റെ ദിശ നൽകണം അതിനാൽ ഇപ്പോൾ പ്രതിഫലിക്കുന്ന ഫീൽഡ് മറ്റൊരു വഴിയാകും അതിനാൽ ഇത് b പ്രതിഫലിപ്പിക്കുന്നു ആദ്യത്തേതിനെ ഇൻസിഡന്റ് എന്ന് വിളിക്കാം ഇതാണ് e ഇൻസിഡന്റ് e റിഫ്ലെക്ടഡ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്ത തരംഗത്തിൽ e ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നു അത് ഇൻസിഡന്റ് തരംഗത്തിന്റെ അതേ ദിശയിലേക്കാണ് പോകുന്നത് b ഇൻസിഡന്റ് അതേ ദിശയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ b റിഫ്ലെക്ട ചെയ്യുന്നു അതിനാൽ വൈദ്യുത മണ്ഡലവും കാന്തികക്ഷേത്രങ്ങളും അതിർത്തിയിലുള്ളത് എന്താണെന്ന് ഞങ്ങൾ സജ്ജമാക്കി ഇപ്പോൾ ഞങ്ങൾ അതിർത്തി വ്യവസ്ഥകൾ പ്രയോഗിക്കേണ്ടതുണ്ട് അതിർത്തി വ്യവസ്ഥകൾ e സമാന്തരമായി ഇരുവശത്തും ഒരുപോലെയാണ് ഇത് സ്റ്റോക്സിന്റെ സിദ്ധാന്തത്തിൽ നിന്ന് താഴെ പറയുന്നതാണ് ഞാൻ ഈ അതിർത്തി നോക്കി ഇവിടെ വളരെ ചെറിയ ഒരു ലൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വശത്തുള്ള ഇ ഫീൽഡ് ഇതുപോലുള്ള വശത്ത് അപ്പോൾ e ഡോട്ട് d l എന്നത് e ഡോട്ട് d a യുടെ ഇന്റഗ്രേഷൻ കർൾ ന് തുല്യമായിരിക്കും E ന്റെ കർൾ ഒരു d b d t മൈനസ് ഡോട്ട് d a അല്ലാതെ മറ്റൊന്നുമല്ല ഇത് ഇടത് വശത്ത് e ആണ് ഞാൻ ഇടത് മൈനസ് e r എഴുതട്ടെ കാരണം ഞങ്ങൾ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ലൂപ്പിലൂടെ സഞ്ചരിക്കുന്നു എന്നിരുന്നാലും ഞങ്ങൾ ലൂപ്പ് ചുരുക്കുമ്പോൾ വലുപ്പം ചുവന്ന ഷേഡുള്ള പ്രദേശം ഏതാണ്ട് പൂജ്യം വീതിയാക്കുന്നു വലതുവശത്ത് പൂജ്യമായിത്തീരുന്നു അതിനാൽ ഇടതുവശത്ത് e വലതുവശത്ത് e ന് തുല്യമായിരിക്കണം അതിനാൽ e സമാന്തരവും ഇരുവശത്തും തുല്യമാണ് ഇത് എനിക്ക് ആദ്യത്തെ സമവാക്യം നൽകുന്നു അത് e r I പ്ലസ് e r എന്നത് e ട്രാൻസ്മിറ്റഡ്ന് തുല്യമാണ് ഇതാണ് സമവാക്യം നമ്പർ 1 മുമ്പത്തെ സമവാക്യത്തിലേക്ക് ഞാൻ പരാമർശിച്ചു അത് സ്ട്രിംഗിൽ നിന്ന് y ഇൻസിഡന്റ് y റിഫ്ലെക്ടഡ് y e y ട്രാൻസ്മിറ്റഡ്ന് തുല്യമാണ് ഇതിന് സമാനമാണ് സമാനമായ രീതിയിൽ b ഇരുവശത്തും സമാന്തരമായി തുല്യമാണ് എന്തുകൊണ്ട് അത് വീണ്ടും സ്റ്റോക്സിന്റെ സിദ്ധാന്തത്തിൽ നിന്ന് പിന്തുടരുന്നു കാരണം ഞാൻ ഇപ്പോൾ b ന് സമാന്തരമായി ഇതുപോലുള്ള ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഈ ലൂപ്പിലുടനീളം b ഡോട്ട് d l ഉണ്ട് b ഡോട്ട് d a ന്റെ കർൾന് തുല്യമാണ് ഇത്നേക്കാൾ mu 0 സ്ഥാനചലനo ഓവർ d t ഡോട്ട് d a ന് തുല്യമാണ് രണ്ടാമത് വിസ്തീർണ്ണം 0 ഈ y 0 ലേക്ക് പോകുന്നു ഇടത് വശത്ത് പൂജ്യമായി മാറുന്നു ഇത് വീണ്ടും ഇലക്ട്രിക് ഫീൽഡിനായുള്ള ആർഗ്യുമെൻറ് പോലെ രണ്ട് വശങ്ങളിൽ b തുല്യമായിരിക്കണം E dlE da0EL ER EIERET അതിനാൽ ഈ അതിർത്തിയിൽ ഞാൻ e e ട്രാൻസ്മിറ്റ് ചെയ്യുകയും e റിഫ്ലെക്ട ചെയ്യുകയും ചെയ്തു എനിക്ക് b ഇൻസിഡന്റ് b റിഫ്ലെക്ടഡ് b ട്രാൻസ്മിറ്റഡ് ഉണ്ട് രണ്ട് സമവാക്യങ്ങൾ e ഇൻസിഡന്റ് പ്ലസ് e റിഫ്ലെക്ടഡ് e ട്രാൻസ്മിറ്റഡ്ന് തുല്യവുമാണ് അതാണ് എന്റെ സമവാക്യം 1 മറ്റൊരു സമവാക്യം b ഇൻസിഡന്റ് b റിഫ്ലെക്ടഡ് മറ്റൊരു ദിശയിൽ b റിഫ്ലെക്ടഡ് b ട്രാൻസ്മിറ്റഡ്ന് തുല്യമാണ് അതായത് സമവാക്യം രണ്ട് എന്നാൽ വൈദ്യുതകാന്തിക സിദ്ധാന്തത്തിൽ നിന്ന് എനിക്കറിയാം b ഇൻസിഡന്റ് മറ്റൊന്നുമല്ല e ഇൻസിഡന്റ് v 1 കൊണ്ട് ഹരിക്കുന്നു ആ മാധ്യമത്തിലെ സംഭവിച്ചത് മൈനസ് b റിഫ്ലെക്ടഡ് മറ്റൊന്നുമല്ല e റിഫ്ലെക്ടഡ് v 1 കൊണ്ട് ഹരിക്കുന്നു ഇത് ആ മാധ്യമത്തിലെ e ട്രാൻസ്മിറ്റഡ് ഓവർ v 2 ന് തുല്യമായിരിക്കണം BI BRBT EIv1 ERv1ETv2 നിങ്ങൾക്ക് അൽപം അസ്വസ്ഥതയുണ്ടാകാം കാരണം ഞാൻ ഈ സമവാക്യം മീഡിയത്തിൽ ഒരു തരംഗത്തിനായി ചെയ്തില്ല പക്ഷേ ബന്ധങ്ങൾ ഒന്നുതന്നെയാണ് മാത്രമല്ല മാക്സ്വെൽ ന്റെ സമവാക്യം എഴുതുന്നതിലൂടെ ഇത് വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയും പൂർണ്ണതയ്ക്കായി ഞാൻ ഈ വശത്ത് എഴുതട്ടെ D യുടെ ഡൈവർജൻസ് 0 ന് തുല്യവും ഒരു ചാർജിന്റെ അഭാവത്തിൽ e ന്റെ കർൾ മൈനസ് d b d t യ്ക്ക് തുല്യമായി തുടരുന്ന B യുടെ കർൾ തുല്യമാണ് വീണ്ടും സ്വതന്ത്ര കറന്റ് ഇല്ല എല്ലാം സ്ഥാനചലന കറന്റിൽ നിന്ന് വരുന്നവ mu 0 ആയിരിക്കും mu 0 d D ബൈ d t b യുടെ ഡൈവർജൻസ് 0 ന് തുല്യമാണ് അതിനാൽ ഇത് വീണ്ടും b e ബൈ v എന്നതിന് തുല്യമായ ബന്ധം തുടരും ഇതിന് ഉടനടി v 2 e I മൈനസ് e r v 1 e ട്രാൻസ്മിറ്റഡ്ന് തുല്യമാണ് അതാണ് എന്റെ സമവാക്യം രണ്ട് എനിക്ക് രണ്ട് സമവാക്യങ്ങൾ ലഭിച്ചു അറിയാത്ത രണ്ടു മൂല്യം e ട്രാൻസ്മിറ്റ് ചെയ്യുകയും e റിഫ്ലെക്ട ചെയ്യുകയും ചെയ്യുന്നു എനിക്ക് അവ പരിഹരിക്കാനാകും v2EI ERv1ET നമുക്ക് സമവാക്യം ഒന്നിനെ v 1 കൊണ്ട് ഗുണിച്ച് സമവാക്യം രണ്ട് കുറയ്ക്കുക ഇത് എനിക്ക് v 1 മൈനസ് v 2 e ഇൻസിഡന്റ് പ്ലസ് v 1 പ്ലസ് v 2 e റിഫ്ലെക്ടഡ് 0 ന് തുല്യമാണ് ഇത് e റിഫ്ലെക്ടഡ് v 2 മൈനസ് v 1 ഓവർ v 2 പ്ലസ് v 1 e ഇൻസിഡന്റ്ന് തുല്യമാണ് വേഗതയുടെ കാര്യത്തിൽ സമാനമായ ബന്ധം രണ്ട് മാധ്യമങ്ങളിലാണ് കാരണം അത് സ്ട്രിംഗിനായിരുന്നു അതുപോലെ തന്നെ e ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇ ഇൻസിഡന്റ് പ്ലസ് e റിഫ്ലെക്ടഡ് മറ്റൊന്നും നൽകില്ല അത് എനിക്ക് 2 v 2 ഓവർ v 2 പ്ലസ് v 1 e ഇൻസിഡന്റ് നൽകും ERv2 v1v2v1EI ETEIER2v2v2v1EI അതിനാൽ ഈ മാധ്യമത്തിൽ നമുക്ക് ലഭിച്ചു അത് ഒരു വശത്ത് എപ്സിലോൺ 1 ഉം മറുവശത്ത് എപ്സിലോൺ 2 ഉം ആണ് അതിനാൽ ചില പ്രതിഫലനങ്ങളും പ്രക്ഷേപണവും ഉണ്ട് ഇവ ഇൻസിഡന്റ് തരംഗം പൂർണ്ണമായും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല മാത്രമല്ല നമുക്ക് പ്രതിഫലിക്കുകയും ചെയ്തു അത് v 2 മൈനസ് v 1 ഓവർ v 2 പ്ലസ് v 1 e ഇൻസിഡന്റ്ന് തുല്യമാണ് ഇ ട്രാൻസ്മിറ്റ് 2 v 2 ഓവർ 2 പ്ലസ് v 1 e ഇൻസിഡന്റ്ന് തുല്യമാണ് ഈ രണ്ട് ബന്ധങ്ങളും ഒരു സ്ട്രിംഗിലെ തരംഗങ്ങൾക്കായി ലഭിച്ച ബന്ധവുമായി വളരെ സാമ്യമുള്ളതാണ് v 2 v 1 നേക്കാൾ കുറവാണെങ്കിൽ e r ന് e ഇൻസിഡന്റ്ഇന്റ വിപരീത ചിഹ്നമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനർത്ഥം ഇത് ദിശയെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു pi ഫേസ് മാറ്റം ഉണ്ട് ഈ സമവാക്യങ്ങളെ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് അടിസ്ഥാനത്തിൽ സമവാക്യങ്ങളിലേക്ക് വിവർത്തനം ചെയ്യാം ഇപ്പോൾ ഞാൻ അറിയുന്നു v c y n ആണ് അതിനാൽ e റിഫ്ലെക്ടഡ് n 1 മൈനസ് n 2 ഓവർ n 1 പ്ലസ് n 2 e ഇൻസിഡന്റ് e ട്രാൻസ്മിറ്റഡ് ആകുന്നു നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുന്നു n 2 ആണെങ്കിൽ അത് മീഡിയം രണ്ടാണ് വലിയ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഉണ്ട് തുടർന്ന് മീഡിയം 1 റിഫ്ലെക്ടഡ് തരംഗത്തിന് ഫേസ് മാറ്റമുണ്ട് ഇത് നിങ്ങളെ പതിനൊന്നാം പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഇത് അടിസ്ഥാനപരമായി വൈദ്യുത മണ്ഡലത്തിലെയും കാന്തികക്ഷേത്രത്തിലെയും അതിർത്തി അവസ്ഥയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ കാണുന്നു ERn1 n2n1n2EI ET2n1n1n2EI എനർജി ട്രാൻസ്മിഷനെക്കുറിച്ച് എന്ത് കാണുന്നു അതിനാൽ ഇവിടെ വരുന്ന ഈ തരംഗങ്ങൾ ട്രാൻസ്മിറ് ചെയ്യുന്നു അത് പ്രതിഫലിക്കുന്നു എനിക്ക് ഇൻസിഡന്റ്ൽ പോയിൻറിംഗ് വെക്റ്റർ വരണംട്രാൻസ്മിറ്റഡ് ഊർജ്ജത്തിനും പ്ലസ് റിഫ്ലെക്ടഡ് ഊർജ്ജത്തിനും തുല്യമായിരിക്കണം s റിഫ്ലെക്ടഡ് പ്ലസ് s ട്രാൻസ്മിറ്റഡ് ഇൻസിഡന്റ് 1 v 1 ഗുണം ഊർജ്ജ സാന്ദ്രത ഇൻസിഡന്റ് ഒരു പകുതി ആയിരിക്കും ഇത് ഒരു പകുതി v 1 u റിഫ്ലെക്ടഡ് പ്ലസ് വൺ പകുതി v 2 u ട്രാൻസ്മിറ്റഡ്ന് തുല്യമായിരിക്കണം അതാണ് ഊർജ്ജ പ്രവാഹം ഈ പകുതി റദ്ദാക്കുന്നു ഇത് v 1 ഗുണം എപ്സിലോൺ 1 e ഇൻസിഡന്റ് സ്ക്വയറിന് തുല്യമാവുകയും വലതുവശത്ത് v 1 എപ്സിലോൺ 1 തവണ e റിഫ്ലെക്ടഡ് സ്ക്വയർ പ്ലസ് v 2 എപ്സിലോൺ 2 തവണ e ട്രാൻസ്മിറ്റ് സ്ക്വയറിലേക്ക് പോകുകയും ചെയ്യും ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് വലതുവശത്ത് കണക്കാക്കാം വലതുവശത്ത് v 1 എപ്സിലോൺ 1 e റിഫ്ലെക്ടഡ് സ്ക്വയർ പ്ലസ് v 2 എപ്സിലോൺ 2 ഇ ട്രാൻസ്മിറ്റ് സ്ക്വയർ ഇത് തുല്യമാണ് v 1 എപ്സിലോൺ 1 തവണ v 2 മൈനസ് v 1 സ്ക്വയർ ഓവർ v 2 പ്ലസ് v 1 സ്ക്വയർ പ്ലസ് എപ്സിലോൺ 2 v 2 തവണ 4 v 2 സ്ക്വയർ ഓവർ v 2 പ്ലസ് v 1 സ്ക്വയർ തവണ e i സ്ക്വയർ എപ്സിലോൺ mu 0 ന്റെ സ്ക്വയർ റൂട്ടിന് v 1 തുല്യമാണെന്ന് ഇപ്പോൾ എനിക്കറിയാം mu തുല്യമാണെന്ന് ഓർമ്മിക്കുക അതിനാൽ v സ്ക്വയർ എപ്സിലോൺ രണ്ട് മീഡിയത്തിനും 1 ഓവർ mu 0 ന് തുല്യമാണ് SincidentSreflectedStransmitted 12v1uI12v1uR12v2uT v11EI2v11ER2v22ET2 v11ER2v22ET2v11v2 v12v2v122v24v22v2v12EI2v10 അതിനാൽ എനിക്ക് ഇത് മുഴുവൻ എഴുതാൻ കഴിയും v 1 എപ്സിലോൺ 1 അതായത് v 2 മൈനസ് v 1 ഓവർ v 2 പ്ലസ് v 1 മുഴുവൻ സ്ക്വയർ പ്ലസ് എപ്സിലോൺ 2 v 2 4 v 2 സ്ക്വയർ ഓവർ v 2 പ്ലസ് v 1 മുഴുവൻ സ്ക്വയറും 1 ഓവർ mu 0 1 ഓവർ v 1 v 2 മൈനസ് v 1 ഓവർ 2 പ്ലസ് v 1 മുഴുവൻ സ്ക്വയർ പ്ലസ് എപ്സിലോൺ 2 v 2 സ്ക്വയർ 1 ഓവർ mu 0 4 v 2 ഓവർ v 2 പ്ലസ് v 1 മുഴുവൻ സ്ക്വയർ ഇത് 1 ഓവർ mu 0 v 1 v 2പ്ലസ് v 1 മുഴുവൻ സ്ക്വയറിനും തുല്യമാണ് അതിനുള്ളിൽ എനിക്ക് v 2 മൈനസ് v 1 മുഴുവൻ സ്ക്വയറും 4 v 1 v 2 ഉം ലഭിക്കുന്നു ഈ പദം ഇതിൽ v 1 പ്ലസ് v 2 മുഴുവൻ സ്ക്വയറല്ലാതെ മറ്റൊന്നുമല്ല ഈ പദം ഉപയോഗിച്ച് റദ്ദാക്കുന്നു അതിനാൽ എനിക്ക് 1 ഓവർ mu 0 v 1 ലഭിക്കുന്നു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം mu 0 v 1 e ഇൻസിഡന്റ് സ്ക്വയർന് 1 വരെ ചേർക്കുന്നു ഇത് v 1 എപ്സിലോൺ 1 e ഇൻസിഡന്റ് സ്ക്വയർ ന് തുല്യമാണ് എളുപ്പത്തിൽ കാണാനാകും അതിനാൽ ഞങ്ങളുടെ വ്യാപ്തികൾ ഊർജ്ജ സംരക്ഷണത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളവയാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചത് അതിർത്തി അവസ്ഥയിലൂടെ ഒരു ഇൻസിഡന്റ് വൈദ്യുതകാന്തിക തരംഗം വരുമ്പോൾ അത് പ്രതിഫലിക്കുകയും പകരുകയും ചെയ്യുന്നു ട്രാൻസ്മിറ്റഡ് റിഫ്ലെക്ടഡ് വൈദ്യുത മണ്ഡലത്തിന്റെ അനുപാതങ്ങൾ കണക്കാക്കി ഊർജ്ജം സംരക്ഷിക്കപ്പെടുന്നവയിലൂടെയും നിങ്ങൾ കാണിക്കുന്നു v11v2 v12v2v122v24v22v2v1210v1v2 v12v2v12104v22v2v1210v1 10v1EI2v11EI2